ഈ ട്യൂട്ടോറിയലിൽ ട്വിറ്റർ API ഉപയോഗിച്ച് എങ്ങനെയാണ് ഡേറ്റ ശേഖരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം നമുക്ക് ആരംഭിക്കാം ആദ്യമായി നമുക്ക് ഒരു ട്വിറ്റർ അക്കൌണ്ട് നിർമിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകം ഒരു ട്വിറ്റർ അക്കൌണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ ട്വിറ്റർ API ഞങ്ങൾ എങ്ങനെ വിജയകരമായി ഉപയോഗിക്കുന്നുവെന്ന് മനസിലാക്കാൻ ദയവായി മുഴുവൻ വീഡിയോയും കാണുക നിങ്ങളുടെ ബ്രൌസർ ഓപ്പൺ ചെയ്യുക അതിൽ www twitter com എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ട്വിറ്ററിന്റെ ഹോം പേജിൽ എത്തിയ ശേഷം വലതുവശത്ത് മുകളിൽ ഉള്ള സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഒരു അക്കൌണ്ട് നിർമിക്കുന്നത് വളരെ ലളിതമാണ് നിങ്ങളുടെ മുഴുവൻ പേരും ഇമെയിൽ വിലാസവും നൽകി ഒരു പാസ്വേഡ് തിരഞ്ഞെടുത്ത് സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫോൺ നമ്പർ എന്റർ ചെയ്യുന്ന അടുത്ത ഘട്ടം നിങ്ങൾക്ക് ഒഴിവാക്കാം ഒരു യൂസർനെയിം തിരഞ്ഞെടുക്കുക അത് ട്വിറ്ററിലെ ഒരു യൂണിക് ഐഡന്റിറ്റി ആയിരിക്കും അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ട്വിറ്റർ അക്കൌണ്ട് വേഗത്തിൽ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് ബാക്കിയുള്ള ഘട്ടങ്ങൾ ഇപ്പോൾ ഒഴിവാക്കാം നിങ്ങളുടെ നിലവിലുള്ള ഇമെയിൽ വിലാസത്തിൽ നിന്ന് നിങ്ങളുടെ കോൺടാക്റ്റുകൾ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യരുത് നോ താങ്ക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആരെയും ഫോളോ ചെയ്യരുത് സെലക്ട് ഓൾ എന്നതിൽ അൺചെക്ക് ചെയ്യുക തുടർന്ന് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇടത് പാനലിലെ ബാക്കിയുള്ള ഘട്ടങ്ങൾ ഒഴിവാക്കുക അടുത്ത രണ്ടുമൂന്നു സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൌണ്ട് റെഡി ആവുന്നതാണ് ഇനി നമുക്ക് ട്വീറ്റ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് ട്വിറ്റർ നിർദ്ദേശിക്കുന്ന ചെയ്യുന്ന ഒരു പോസ്റ്റ് തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് കമ്പോസ് ചെയ്യാം ഈ സാഹചര്യത്തിൽ ട്വിറ്റർ നിർദ്ദേശിക്കുന്ന ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം ട്വീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ട്വീറ്റ് പോസ്റ്റ് ചെയ്യപ്പെടും നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് നിങ്ങൾ ട്വിറ്റർ അക്കൌണ്ട് സൃഷ്ടിച്ച നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലേക്ക് പോയി നിങ്ങളുടെ ട്വിറ്റർ അക്കൌണ്ട് സ്ഥിരീകരിക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ ട്വിറ്റർ ഡോട്ട് കോം അയച്ച ഇമെയിൽ സ്ഥിരീകരിക്കുന്നതിന് നിങ്ങളുടെ ഇമെയിൽ ഇൻബോക്സിലേക്ക് പോകാം നിങ്ങളുടെ ഇൻബോക്സിൽ കൺഫോം നൌ ബട്ടൺ ഉള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ട്വിറ്ററിന്റെ ഹോം പേജിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടും അവിടെ നിങ്ങളുടെ അക്കൌണ്ട് സ്ഥിരീകരിച്ചതായി പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടാകും ഇനി നിങ്ങൾക്ക് ഒരു ട്വിറ്റർ API വിജയകരമായി നിർമിക്കാൻ കഴിയും ഒരു ട്വിറ്റർ അപ്ലിക്കേഷൻ നിർമിക്കുന്നതിനായി apps com എന്നതിലേക്ക് പോവുക അവിടെ create new app എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്പ്ളിക്കേഷനായി ഒരു പേര് നൽകുക അതോടൊപ്പം ഒരു വിവരണവും ചേർക്കുക വെബ്സൈറ്റിൽ http ക്കു മുന്നിൽ ഏതെങ്കിലും URL ചേർക്കുക ഇവിടെ നമ്മൾ http www google com എന്ന് ഉപയോഗിക്കുന്നു കൂടാതെ കോൾബാക്ക് URL ശൂന്യമായി വിടുക ഇപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുക തുടർന്ന് create your twitter അപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്കുചെയ്യുക ട്വിറ്റർ അക്കൌണ്ടിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു എറർ കാണിക്കും നമ്മൾ ഒരു ട്വിറ്റർ അക്കൌണ്ടിലേക്ക് വാലിഡായ ഒരു ഫോൺ നമ്പർ ചേർക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ട്വിറ്റർ പ്രൊഫൈലിലേക്ക് തിരികെ പോകുകവലത് ഭാഗത്ത് മുകളിൽ കാണിച്ചിരിക്കുന്ന നിങ്ങളുടെ ട്വിറ്റർ പ്രൊഫൈൽ ചിത്രത്തിലോ അല്ലെങ്കിൽ മുട്ട ഐക്കണിലോ ക്ലിക്കുചെയ്ത് ക്രമീകരണങ്ങൾ തിരഞ്ഞെടുക്കുക അവിടെ ഇടത് പാനലിൽ നിന്ന് മൊബൈൽ എന്നതിൽ സെലക്ട് ചെയ്ത് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക continue എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇത് ചെയ്ത ഉടനെ നിങ്ങളുടെ രെജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വെരിഫിക്കേഷൻ കോഡ് SMS ആയി ലഭിക്കും അവിടെ നിങ്ങൾക്ക് ലഭിച്ച 6 മുതൽ 8 അക്കങ്ങൾ വരെ വരുന്ന കോഡ് എന്റർ ചെയ്യുക അതോടൊപ്പം ആക്ടിവേറ്റ് ഫോൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ സ്ഥിരീകരിച്ചതായി പറയുന്ന ഒരു സന്ദേശം ഉണ്ടാകും ഇനി നമുക്ക് ഒന്നുകൂടി അപ്ലിക്കേഷൻ നിർമിക്കാൻ ശ്രമിക്കാം com എന്ന ടാബിലേക്ക് മടങ്ങുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് ക്രിയേറ്റ് യുവർ ട്വിറ്റർ അപ്പ്ലികേഷൻ എന്നതിൽ ക്ലിക്കുചെയ്യുക ഇത്തവണ അത് വിജയകരമായി സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ നിങ്ങൾക്ക് ആക്സസ് കീകളും ടോക്കണുകളും ഉപയോഗിച്ചുകൊണ്ട് ട്വിറ്റർ അപ്ലിക്കേഷൻ വഴി ഡേറ്റ ശേഖരിക്കാം കീകളിൽ ക്ലിക്ക് ചെയ്ത് ടോക്കൺ ടാബ് ആക്സസ് ചെയ്യുക നിങ്ങളുടെ കൺസ്യൂമർ കീയും കൺസ്യൂമർ രഹസ്യവും നിങ്ങൾക്ക് കാണാൻ കഴിയും വിജയകരമായ വിവരശേഖരണത്തിന് ടോക്കൺ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് കീകൾ കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് create my access token എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ആക്സസ് ടോക്കൺ ആക്സസ് ടോക്കൺ സീക്രട്ട് എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് കീകൾ കൂടി സൃഷ്ടിക്കുന്നതിന് കാരണമാകും ഇപ്പോൾ ഈ നാല് കീകളുടെ സെറ്റ് ഡേറ്റ ശേഖരിക്കാൻ ഉപയോഗിക്കാം അത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാം ട്വിറ്റർ API നൽകുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ബ്രൌസറിലെ ട്വിറ്റർ API ഡോക്യുമെന്റേഷനിലേക്ക് പോയി ഡോക്യുമെന്റേഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യുക ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ട്വിറ്ററിന്റെ റെസ്ററ് API ഉപയോഗിക്കും റെസ്ററ് API വിവിധ തരത്തിലുള്ള ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള പ്രവർത്തനം നൽകുന്നു നിങ്ങൾ കാണുന്ന ഇടത് പാനലിൽ നിങ്ങൾക്ക് ഉപയോക്താവിന് മാത്രം നിർദി ഷ്ടമായ ഡേറ്റ അല്ലെങ്കിൽ പബ്ലിക് ട്വീറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ് ആധികാരികമാക്കിയ ഉപയോക്താക്കളുടെയോ ഫോളോവേഴ്സിന്റെയോ അല്ലെങ്കിൽ അത്തരം ഡേറ്റ പൊതുവായ ഏതൊരു പ്രത്യേക ഉപയോക്താ വിന്റെയും ഡേറ്റകൾ നിങ്ങൾക്ക് അക്സസ്സ് ചെയ്യുവാൻ കഴിയും സെർച്ച് API ഉപയോഗിക്കുന്നതിനു പുറമെ നമ്മൾ സ്ട്രീമിങ് API യും ഉപയോഗിക്കും തത്സമയം ട്വിറ്റർ ഡേറ്റ നിരീക്ഷിക്കുവാനും പ്രോസസ്സ് ചെയ്യുവാനുമുള്ള ഫങ്ക്ഷൻ സ്ട്രീമിങ് API നിങ്ങൾക്ക് നൽകുന്നു ട്വിറ്റർ API ഉപയോഗിക്കുന്നതിന് നമ്മൾ ഒരു പൈത്തൺ റാപ്പർ ഉപയോഗിക്കുന്നു അതിനെ Twython എന്ന് വിളിക്കുന്നു ഇപ്പോൾ Twython എങ്ങനെ ഉപയോഗിക്കും എന്ന് നോക്കുന്നതിനു മുമ്പ് നമുക്ക് ആദ്യം Twython ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളുടെ ടെർമിനലിലേക്ക് പോകുക അവിടെ sudo pip എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് Twython ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ നേരത്തെ തന്നെ pip ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിലേക്ക് പോയി എങ്ങനെ pip എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനുള്ള ട്യൂട്ടോറിയൽ നോക്കുക നിങ്ങൾ എന്റർ അമർത്തുമ്പോൾ നിങ്ങളോട് sudo പാസ്വേഡ് ആവശ്യപ്പെടുകയും Twython ഇൻസ്റ്റാളേഷൻ ആരംഭി ക്കുകയും ചെയ്യും Twython വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ പൈത്തൺ ക്ലി യിൽ പോയി import Twython എന്ന് ടൈപ്പ് ചെയ്യുക ഇത് വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് Twython ഇമ്പോർട് ചെയ്യുവാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പൈത്തൺ CLI യിൽ നിന്ന് പുറത്തുകടക്കാം അടുത്ത ഘട്ടത്തിൽ ട്വിറ്ററിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നതിന് നമ്മൾ ഒരുമിച്ച് സൃഷ്ടിച്ച Twython ട്വിറ്റർ API ക്രെഡൻഷ്യലുകൾ എന്നിവ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ കാണും ഇപ്പോൾ നമുക്ക് Twython എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം Twython ന്റെ അടിസ്ഥാന ഉപയോഗം മനസ്സിലാക്കാൻ നമുക്ക് Twython ന്റെ ഡോക്യുമെന്റേഷനിലേക്ക് പോകാം ഡോക്യുമെന്റേഷനിൽ നിരവധി പാരാമീറ്ററുകൾ ഉപയോഗിച്ച് Twython എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് കാണാം ബേസിക് യൂസേജിലേക്ക് പോവുക ട്വിറ്റെർ ആപ്പ് നിർമിച്ചപ്പോൾ മുൻപത്തെ സ്റ്റെപ്പു കളിൽ നമ്മൾ നിർമിച്ച നാല് കീകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നാല് കീകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡേറ്റ അക്സസ്സ് ചെയ്യുന്നത് Twython നൽകുന്ന twitter API ക്ക് സമാനമായ നിരവധി എൻഡ് പോയിന്റുകൾ Twython നൽകുന്നുണ്ട് നമുക്ക് ടെർമിനലിലേക്ക് തിരികെ പോയി ഒരു പൈത്തൺ ഫയൽ ഉണ്ടാക്കാം ഈ ഫയലുകൾ Twython import ഇൽ നിന്ന് കമാൻണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് Twython ഇമ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇതിൽ ശൂന്യമായ നാല് വേരിയബിളുകളുടെ ഒരു ലിസ്റ്റും ഉണ്ട് നമ്മൾ മുമ്പ് സൃഷ്ടിച്ച ആപ്പ് ഉപയോഗിച്ച് ഈ പാരാമീറ്ററുകൾ നമുക്ക് പൂരിപ്പിക്കാം കൺസ്യൂമർ കീ ഹോൾഡ് ചെയ്യുക കൂടാതെ അത് ആപ്പ് കീയുടെ സ്ഥാനത്ത് വയ്ക്കുക അതുപോലെനിങ്ങൾ കൺസ്യൂമർ സീക്രട്ടും ഉപയോഗിക്കും ഇതിനെ API സീക്രട്ട് എന്നും വിളിക്കുന്നു ഓർക്കുക നമ്മൾ രണ്ട് സെറ്റ് കീകൾ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ആക്സസ് ടോക്കണും ആക്സസ് ടോക്കൺ സീക്രട്ടുമാണ് oauth ടോക്കൺ വേരിയബിളിൽ നിങ്ങളുടെ അക്സസ്സ് ടോക്കൺ കോപ്പി പേസ്റ്റ് ചെയ്യുക oauth ടോക്കൺ സീക്രട്ടിന്റെ സ്ഥാനത്ത് അക്സസ്സ് സീക്രട്ട് കോപ്പി ചെയ്യുക ഇപ്പോൾ അടുത്ത വരി ഒരു ഇനിഷ്യേറ്റർ മാത്രമാണ് അത് നിങ്ങളെ ട്വിറ്റർ API ലേക്ക് ബന്ധിപ്പിക്കുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ആധികാരിക ഉപയോക്താവിന്റെ അതായത് നിങ്ങളുടെ അക്കൌണ്ടിൽ ട്വിറ്റർ ടൈംലൈൻ യോജിപ്പിക്കും ട്വിറ്റർ ഡോട്ടിന് തുല്യമായ ഹോം ടൈംലൈനിൽ നിങ്ങളുടെ ടൈംലൈനിൽ ദൃശ്യമാകുന്ന എല്ലാ ട്വീറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഞങ്ങളിതു പ്രിന്റ് ചെയ്യാൻ പോകുന്നു ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൈത്തൺ പൈത്തൺ ഡെമോ ഡോട്ട് പൈ എന്നിവ പ്രവർത്തിപ്പിക്കുക അവിടെ വായിക്കാനാവാത്ത നിരവധി വാചകങ്ങളുണ്ട് മാത്രമല്ല ഇത് യൂണികോഡിൽ എൻകോഡ് ചെയ്തിട്ടുമില്ല അതിനാൽ ഞങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു നിങ്ങൾക്ക് Json ഡാറ്റ ഫോർമാറ്റ് ചെയ്യുന്നതിനായി നമുക്ക് json ലൈബ്രറി ഇമ്പോര്ട ചെയ്യാം json dot dumps എന്ന കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഡാറ്റ സ്ട്രിംഗ് ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ നമുക്ക് ഈ ഫയൽ വീണ്ടും സേവ് ചെയ്യാം നമ്മളിത് പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ ഇത്തവണ കുറച്ചുകൂടി വ്യക്തമായ കോഡ് നമുക്ക് ഉണ്ട് പക്ഷേ അത് ഇപ്പോഴും വായിക്കാനാവുന്നില്ല ഈ ഡേറ്റ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് ഒരു വെബ് സർവീസ് ഉപയോഗിക്കാം നിങ്ങളുടെ ബ്രൌസറിൽ json viewer dot stack dot hu എന്നതിലേക്ക് പോവുക ഇതൊരു സർവീസ് ആണ് ഇത് json ഫോർമാറ്റ് വായിക്കാവുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുകയും ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതോടൊപ്പം വ്യൂവറിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് ഒരു പട്ടികയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ഒരു ഒബ്ജക്റ്റ് 0 കൊണ്ട് ഇൻഡെക്സ് ചെയ്തിരിക്കുന്നു നിങ്ങളിത് വികസിപ്പിക്കുകയാണെങ്കിൽ ട്വീറ്റിന്റെ വാചകം പോലുള്ള വിവിധ പാരാമീറ്ററുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആദ്യ ട്വീറ്റാണിതെന്ന് ഓർക്കുക നിങ്ങൾക്ക് എന്റിറ്റികളിൽ ക്ലിക്കു ചെയ്യാനും ട്വീറ്റിന്റെ മറ്റ് പാരാമീറ്ററുകൾ കാണുവാനും കഴിയും നിങ്ങൾക്ക് യൂസർ വിവരങ്ങൾ വിപുലീകരിക്കാനും ഈ പ്രത്യേക ട്വീറ്റ് പോസ്റ്റ് ചെയ്ത യൂസറെ കണ്ടെത്താനും കഴിയും നമ്മളുടെ കാര്യത്തിൽ പിന്തുടരുന്നവരുടെ എണ്ണവും സുഹൃത്തുക്കളുടെ എണ്ണവും പൂജ്യം ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ ആരെയും ഫോളോ ചെയ്യുന്നുമില്ലപുതുതായി ക്രീയേറ്റ് ചെയ്ത നമ്മുടെ അക്കൌണ്ടിൽ നമുക്ക് ഫോളോവേഴ്സും ഇല്ല അത് പരിശോധിക്കാൻ നമുക്ക് ട്വിറ്ററിലേക്ക് മടങ്ങാം നമുക്ക് ഒരു പുതിയ ട്വീറ്റ് പോസ്റ്റ് ചെയ്ത് പ്രോഗ്രാം എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് നോക്കാം നിങ്ങൾക്ക് എന്തും ടൈപ്പ് ചെയ്യാം ഒരു ട്വീറ്റ് രചിച്ച് ട്വീറ്റ് ബട്ടണിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം വീണ്ടും പ്രവർത്തിപ്പിച്ച് ഇത് പ്രോഗ്രാം ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങളുടെ ടെർമിനലിലേക്ക് തിരികെ പോയി ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ സൃഷ്ടിച്ച അതേ പേരുള്ള ഫയലിൽ പൈത്തൺ സ്പെയ്സ് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൂട്ടം വാചകങ്ങളുണ്ട് നമ്മൾ മുമ്പ് ഉപയോഗിച്ച വെബ് സർവീസിലേക്ക് അത് വീണ്ടും കോപ്പി ചെയ്യാം ഇത്തവണ വാചകം കൂടുതൽ വലുതായി കാണപ്പെടുന്നു നിങ്ങൾ വ്യൂവറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിസ്റ്റിലെ രണ്ട് ഒബ്ജക്റ്റുകൾ കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ആദ്യത്തേത് വികസിപ്പിക്കുകയാണെങ്കിൽ മുമ്പത്തെ ട്വീറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ 0 ആയ ഒബ്ജക്റ്റ് കാണുകയാണെങ്കിൽ അതാണ് ഏറ്റവും പുതിയ ട്വീറ്റ് അതിനാൽ ഒരു ഉപയോക്തൃ ടൈംലൈൻ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന ലളിതമായ പ്രോഗ്രാമുമായി നമ്മൾ ഇപ്പോൾ തയ്യാറാണ് ഈ പ്രോഗ്രാം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉപയോക്തൃ ടൈംലൈൻ ക്യാപ്ചർ ചെയ്യാനാകില്ല പക്ഷെ ഏത് ട്വിറ്റർ ഉപയോക്താവിന്റെ പൊതു ഡാറ്റ വേണമെങ്കിലും അക്സസ്സ് ചെയ്യാം Twython ഡോക്യുമെന്റേഷനിലൂടെ അത് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് കൂടുതൽ മാറ്റങ്ങൾ വരുത്താം അങ്ങനെ നമുക്ക് കൂടുതൽ വായിക്കാവുന്ന ഔട്ട്പുട്ട് ലഭിക്കും ഉപയോക്താവ് ഇതുവരെ പോസ്റ്റുചെയ്ത ട്വീറ്റുകളുടെ വാചകം മാത്രം അച്ചടിക്കേണ്ടി വന്നാൽ അത് ചെയ്യുന്നതിന് നമ്മൾ ടൈംലൈൻ ഡാറ്റ ഓരോന്നായി ആവർത്തിക്കുകയും ഓരോ ട്വീറ്റ് ഡാറ്റയിലും ലഭ്യമായ വാചകം അച്ചടിക്കുകയും ചെയ്യും നമ്മളൊരു ലൂപ്പ് ആരംഭിക്കുകയും അതിനുശേഷം ട്വിറ്റർ API മടക്കിനൽകുന്ന json ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യുകയും ചെയ്യും ഓരോ ട്വീറ്റും അടിസ്ഥാനപരമായി ഒരു കൂട്ടം കീകൾ ഉള്ള ഒരു നിഘണ്ടുവാണെന്ന കാര്യം ശ്രദ്ധിക്കുക ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വാചകം ആക്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം വീണ്ടും പ്രവർത്തിപ്പിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ രണ്ട് വരികളായി ഔട്ട്പുട്ട് കാണാൻ സാധിക്കും അത് രണ്ട് ട്വീറ്റിന്റെ വാചകമാണ് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ട്വിറ്റർ ടൈംലൈൻ ലഭ്യമാക്കുന്നതിനുള്ള ലളിതമായ പ്രോഗ്രാമുമായി ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ Twython ഉപയോഗിക്കാം ഒരു പ്രത്യേക കീവേഡ് അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ട്വീറ്റുകൾ തിരയാമെന്ന് Twython ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ടെർമിനലിലേക്ക് തിരികെ പോയി ഒരു പൈത്തൺ ഫയൽ നിർമിക്കാം ഇപ്പോൾ ഞാൻ ഇതിനകം തന്നെ ഒരെണ്ണം നിർമിച്ചു ഇത് മുമ്പത്തേതിന് സമാനമാണ് ഇതിൽ ആപ്പ് കീ ആക്സസ് ടോക്കൺ ആപ്പ് സീക്രട്ട് എന്നിവയുടെ ലിസ്റ്റ് ഉണ്ട് ഒരേയൊരു വ്യത്യാസം ഇപ്പോൾ ഞങ്ങൾ ഒരു നിർദ്ദിഷ്ട കീ വാക്കിനെ അടിസ്ഥാനമാക്കി ട്വിറ്റർ സെർച്ച് എൻഡ് പോയിന്റിൽ നിന്ന് ഡേറ്റ ശേഖരിക്കാൻ പോകുന്നു എന്നതാണ് ഈ സാഹചര്യത്തിൽ അത് ഇലക്ഷൻ 2016 എന്നതാണ് റിസൾട്ട് മിക്സഡ് ആയിരിക്കും അതായത് ഇത് ജനപ്രിയവും സമീപകാലവുമായ ട്വീറ്റുകളുടെ മിക്സ് ആയിരിക്കും നമുക്ക് 100 ന് തുല്യമായ ട്വീറ്റുകൾ ഉണ്ട് ഇത് തിരികെ നൽകും ഈ സാഹചര്യത്തിൽ ട്വിറ്റർ API നമ്മൾക്ക് മടക്കിനൽകുന്ന ട്വീറ്റുകളുടെ എണ്ണം നമ്മൾ പ്രിന്റ് ചെയ്യും നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യാം ഔട്ട്പുട്ട് 100 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് പ്രോഗ്രാമിലേക്ക് തിരികെ പോകാം ട്വിറ്റർ API മടക്കിനൽകിയ യഥാർത്ഥ ഡാറ്റ എന്താണെന്ന് നോക്കാം ഈ രീതിയിലൂടെ Twitter API മടക്കിനൽകിയ ട്വീറ്റുകളുടെ ലിസ്റ്റ് ആക്സസ് ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് ഡാറ്റ സ്റ്റാറ്റസുകൾക്ക് തുല്യമായ സ്റ്റാറ്റസുകൾ ഉപയോഗിക്കാം ഇനിപ്പറയുന്ന കോഡ് ഉപയോഗിച്ച് ട്വീറ്റ് ഐഡിക്കൊപ്പം ഓരോ ട്വീറ്റിന്റെയും ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ നിങ്ങൾ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ ഒരു കൂട്ടംവാചകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യ സ്ട്രിംഗ് ട്വീറ്റ് ഐഡിയാണെന്നും കോളൻ ചിഹ്നത്തിന് ശേഷമുള്ള ടെക്സ്റ്റിന്റെ രണ്ടാം ഭാഗം ട്വീറ്റ് ടെക്സ്റ്റാണെന്നും ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്ട്രീമിംഗ് എൻഡ്പോയിന്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾക്ക് കാണാം Twythonന്റെ ഡോക്യുമെന്റേഷനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന സ്ട്രീമിംഗ് എൻഡ് പോയിന്റ് ആക്സസ് ചെയ്യുന്നതിനുള്ള ഫങ്ക്ഷൻ Twython നൽകുന്നു ഡോക്യുമെന്റേഷന് ഇതിനകം ഒരു സ്റ്റാർട്ടർ കോഡ് ഉണ്ട് അത് തത്സമയം ട്വിറ്ററിൽ നിന്ന് ഡേറ്റ ലഭിക്കാൻ നമ്മൾക്ക് ഉപയോഗിക്കാം നമുക്ക് ടെർമിനലിലേക്ക് തിരികെ പോയി ഒരു പൈത്തൺ ഫയൽ ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ ഇതിനകം തന്നെ ഒരു ഫയൽ സൃഷ്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ആക്സസ് ടോക്കണുകളുടെയും സീക്രട്ടുകളുടെയും മുമ്പത്തെ ലിസ്റ്റിന് സമാനമാണ് എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു ക്ലാസ് MyStreamer ഉണ്ട് അതിൽ അടിസ്ഥാനപരമായി രണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ട് അത് നമുക്ക് വിജയകരമായി ഡേറ്റ ലഭിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും എന്ത് ചെയ്യും എന്ന് നിർവചിക്കുന്നു നമുക്ക് ഡേറ്റ വിജയകരമായി ലഭിക്കുകയാണെങ്കിൽ utf 8 ൽ എൻകോഡ് ചെയ്ത ശേഷം നമ്മൾ അതിന്റെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുന്നു കൂടാതെ അഥവാ ഇത് കാണിക്കുന്നത് ഒരു എറർ ആണെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റസ് കോഡ് പ്രിന്റ് ചെയ്ത് പാസ് ചെയ്യും മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ ഉപയോഗിച്ച അതേ കീവേഡ് നമ്മൾ ഉപയോഗിക്കുന്നുഅവിടെ നമ്മൾ പഴയ ട്വീറ്റുകൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിച്ച കീവേഡ് ആണ് elections2016 ഈ കേസിൽ നമ്മളിത് തത്സമയം ചെയ്യാൻ പോകുന്നു നമുക്ക് ഈ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാം ഓർക്കുക ഈ ഡാറ്റ തത്സമയം ശേഖരിക്കപ്പെടുന്നതിനാൽ ട്വീറ്റുകൾ എപ്പോൾ പോസ്റ്റുചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഉടൻ തന്നെ റിസൾട്ട് കാണുവാൻ സാധിക്കില്ല നിർദ്ദിഷ്ട കീ വേഡ് ഇപ്പോഴും സജീവമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ട്വീറ്റുകൾ വരാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ട്വീറ്റുകൾ തത്സമയം സൃഷ്ടിക്കപ്പെടുന്നു ഇപ്പോൾ ഒരു പ്രത്യേക കീവേഡ് ട്രാക്കുചെയ്യുന്നതിനുപകരം ഒരു യൂസറെ ട്രാക്കുചെയ്യാൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലോ ട്വിറ്റർ API ഉപയോഗിച്ചും ഇത് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെ സാധ്യമാണെന്ന് കാണാൻ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇത്തവണ നമുക്ക് ചെറിയ വ്യത്യാസമുള്ള ഫയൽ ആണ് എന്തെന്നാൽ ഒരു കീവേഡ് ട്രാക്ക് ചെയ്യുന്നതിന് പകരം ഇത്തവണ നമ്മൾ ഒരു id ആണ് ഫോളോ ചെയ്യുന്നത് മുമ്പത്തെ ഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച നിങ്ങളുടെ സ്വന്തം അക്കൌണ്ടിന്റെ ട്വിറ്റർ ഐഡിയാണിത് ഡേറ്റയുടെ യൂസർ പാർട്ടിൽ ഉള്ള id string പരിശോധിക്കുക അത് യൂസർ ഐഡി പ്രോഗ്രാമിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ആ പ്രത്യേക യൂസറെ ട്രാക്കുചെയ്യാനാകും ഇപ്പോൾ നമുക്ക് ഈ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റും കാണാൻ സാധിക്കില്ല കാരണം നമ്മുടെ അക്കൌണ്ടിൽ തത്സമയം ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ട്വീറ്റ് പോസ്റ്റ് ചെയ്ത് കോഡിൽ അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം നിങ്ങളുടെ ട്വിറ്റർ അക്കൌണ്ടിൽ പോയി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക ട്വീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലുടൻ നിങ്ങളുടെ ടെർമിനലിലും അതേ മാറ്റം കാണാൻ കഴിയും നിങ്ങൾ തത്സമയം പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിന് കഴിഞ്ഞു നമുക്ക് മറ്റൊരു ട്വീറ്റ് ചെയ്യാം കൂടാതെ ടെർമിനലിലേക്ക് തിരികെ പോവുക അവിടെ പുതിയ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് കാണാം അടുത്ത ട്യൂട്ടോറിയലിൽ ഒരു ഡാറ്റാബേസിൽ ഈ ഡാറ്റ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം